ക്വാസിസ്റ്റാറ്റിക് സമീപനം വൈദ്യുതകാന്തിക പ്രതിഭാസങ്ങളെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാൽ പൂർണ്ണമായും വിവരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അതിനാൽ നമുക്ക് അവ എഴുതാം E യുടെ ഡൈവർജൻസ് rho ഓവർ എപ്സിലോൺ 0 ന് തുല്യമാണെന്ന് പറയുന്ന ഗോസിന്റെ നിയമവും കേൾ E എന്നാൽ മൈനസ് d B d t ക്ക് തുല്യമാണെന്ന് പറയുന്ന ഫാരഡെയുടെ നിയമവും ആണ് അവ കേൾ B എന്നത് സാധാരണ കറന്റ് J പ്ലസ് വൈദ്യുത മണ്ഡലത്തിലെ മാറ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കറൻറ് എപ്സിലോൺ 0 d E by d t യെയും ആശ്രയിച്ചിരിക്കുന്നു നാലാമത്തെ സമവാക്യം ഡൈവർജൻസ് B എന്നത് പൂജ്യത്തിന് തുല്യമാണ് എന്നാണ് ഈ സമവാക്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ പ്രഭാഷണത്തിൽ കണ്ട് അവ എന്താണ് പ്രവചിക്കുന്നത് എന്ന് നോക്കാം ഉദാഹരണത്തിന് ഞാൻ സ്വതന്ത്ര സ്ഥലത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ കറൻറ് ചാർജ് എന്നിവ പൂജ്യമാണ് ഈ സ്ഥലത്ത് പുറത്തുനിന്നുള്ള ഫീൽഡ് മാത്രമാണുള്ളത് അതിനാൽ ഞാൻ E B എന്നിവ വിവരിക്കുകയാണെങ്കിൽ E യുടെ ഡൈവർജൻസ് 0 ആണ് കാരണം ഞാൻ അകത്ത് കറന്റ് എടുക്കുന്നില്ല അതിനാൽ ഇത് ഈ വോള്യത്തിനുള്ളിലാണ് കേൾ E എന്നാൽ മൈനസ് d B d t ക്ക് തുല്യമായിരിക്കും കേൾ B എന്നത് mu 0 എപ്സിലോൺ 0 d E by d t യും ഡൈവർജൻസ് B പൂജ്യവും ആയിരിക്കും അതിനാൽ ഈ ഫീൽഡുകൾ അകത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് E ഇതിനകത്ത് ഉണ്ടെന്ന് കരുതുക അതിനാൽ സമയത്തിനനുസരിച്ച് മാറുന്ന ഈ E യുടെ dE by dt പൂജ്യത്തിന് തുല്യമല്ലെന്ന് നമുക്ക് എഴുതാം ഇത് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നു കാരണം അത് സമയത്തിൽ അനിയന്ത്രിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നാണ് പുറത്തുവരുന്നത് അതിനാൽ ഈ കാന്തികക്ഷേത്രം B t യും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതായത് dB by dt 0 ന് തുല്യം ആയിരിക്കുകയില്ല കാന്തികക്ഷേത്രത്തിലെ ഈ മാറ്റം വീണ്ടും E t യെ സൂചിപ്പിക്കുന്നു അത് മറ്റൊരു ഫീൽഡിന് കാരണമാകുന്നു ആ E t വീണ്ടും B നൽകുന്നു അത് നമ്മൾ അവസാനിപ്പിക്കുന്നത് വരെ അങ്ങനെ തുടരുന്നു ഉദാഹരണത്തിന് മുൻ പ്രഭാഷണത്തിൽ ഒരു കപ്പാസിറ്ററിലെ ഡിസ്പ്ലേമെൻറ് കറൻറ്ൻറെ ഭാഗം ഞാൻ പരിഗണിക്കുമ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള വൈദ്യുത മണ്ഡലത്തിലെ ഈ മാറ്റം ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന കാന്തികക്ഷേത്രം വീണ്ടും മറ്റൊരു മേഖലയ്ക്ക് കാരണമാകുന്നു എന്ന കാര്യം നമ്മൾ പരിഗണിച്ചിരുന്നില്ല അതുപോലെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കണക്കുകൂട്ടുന്ന ഒരു പ്രശ്നത്തിൽ ഫാരഡേ നിയമം ഉപയോഗിച്ചാണ് നമ്മൾ അത് കണ്ടെത്തിയത് ഉദാഹരണത്തിന് വൈദ്യുത പ്രവാഹം മാറുന്ന ഒരു സോളിനോയിഡിൽ വൈദ്യുത മണ്ഡലം കണക്കുകൂട്ടുന്നതിലൂടെ നമ്മൾ അവസാനിപ്പിച്ചു അവിടെ വൈദ്യുത മണ്ഡലം മാറുമെന്നും അത് മറ്റൊരു കാന്തികക്ഷേത്രത്തിന് കാരണമാകും എന്ന് നമ്മൾ പരിഗണിച്ചില്ല അത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് നമ്മൾ അത് എങ്ങനെ തീരുമാനിക്കും അതിനാൽ ഇവയിലെല്ലാം നമ്മൾ ക്വാസിസ്റ്റാറ്റിക് അപ്പ്രൊക്സിമേഷൻ എന്ന് വിളിക്കുന്ന ഒരു പദം ഉപയോഗിക്കുന്നു അവിടെ കാന്തികക്ഷേത്രമോ വൈദ്യുത മണ്ഡലമോ കണക്കാക്കിയ ശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതെ അവസാനിപ്പിച്ചിരുന്നു ഈ ക്വാസിസ്റ്റാറ്റിക് അപ്പ്രൊക്സിമേഷനെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം ഉപയോഗിക്കുകയാണ് അതിനാൽ ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് നമ്മൾ I t എന്ന സമയത്തെ ആശ്രയിക്കുന്ന കറന്റ് വഹിക്കുന്ന ഒരു സോളിനോയിഡ് എടുത്തു അതിൽ B യിലെ കാന്തികമണ്ഡലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫാരഡെയുടെ നിയമപ്രകാരം ഈ ദിശയിൽ ഒരു വൈദ്യുത മണ്ഡലത്തിന് കാരണമാകുമെന്ന് നമ്മൾ കണ്ടു ഞാൻ ഒരു ക്രമരഹിതമായ ദിശയാണ് എടുക്കുന്നത് ചിലപ്പോൾ അത് മറ്റു ദിശയിലായിരിക്കാം അതുപോലെ മറ്റൊരു ഉദാഹരണത്തിൽ ഞാൻ ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു അതിനകത്തേക്ക് I t എന്നൊരു സമയത്തെ ആശ്രയിച്ചിരിക്കുന്ന കറന്റ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഇതിനിടയിലുള്ള വൈദ്യുത മണ്ഡലം E സമയത്തിനനുസരിച്ച് മാറുന്നു ഇത് ഒരു വൃത്താകൃതിയിലുള്ള മുകളിലേക്ക് വരുന്ന കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്നു പക്ഷേ നമ്മൾ ആ കാന്തിക മണ്ഡലത്തിൽ വച്ച് അത് അവസാനിപ്പിച്ചു നമ്മൾ അതിനപ്പുറം പോയില്ല അത് ഒരു അധിക വൈദ്യുത മണ്ഡലത്തിന് കാരണമായേക്കാം എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചത് എന്താണ് അതിനുള്ള അവകാശം നമുക്ക് നൽകുന്നത് ക്വാസിസ്റ്റാറ്റിക് അപ്പ്രൊക്സിമേഷന് കീഴിലുള്ള ഈ പ്രഭാഷണത്തിൽ നമുക്ക് അത് വിശകലനം ചെയ്യാം ഈ രണ്ട് കണക്കുകൂട്ടലുകളും ആ അപ്പ്രൊക്സിമേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇത് എപ്പോൾ പ്രയോഗിക്കാനാകുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇത് ചെയ്യുന്നതിന് ഈ ഫീൽഡുകൾ പരസ്പരം ഉളവാക്കുന്നുവെന്ന് പറയുന്ന സമയത്തെ ആശ്രയിക്കുന്ന സമവാക്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം അതിനാൽ നമുക്ക് കേൾ E എന്നാൽ മൈനസ് d B by d t ക്ക് തുല്യമാണെന്നും കേൾ B എന്നത് mu 0 എപ്സിലോൺ 0 d E by d t ആണെന്നും എഴുതാം ഞാൻ അതിലെ mu 0 എപ്സിലോൺ 0 എന്നതിനെ 1 ഓവർ C സ്ക്വയർ ആയി d E by d t എന്ന് എഴുതട്ടെ ഇവിടെ C പ്രകാശത്തിന്റെ വേഗതയാണ് കാരണം പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണ് ഇവയെല്ലാം സ്വാഭാവികമായി കാണപ്പെടുന്നവയാണ് അതിനാൽ നമ്മൾ ഇത് 1 ഓവർ C സ്ക്വയറായി എഴുതാൻ പോകുന്നു ഇപ്പോൾ ഞാൻ ഇതിൽ പരിഹരിക്കുന്ന പ്രശ്നത്തിലെ നീളത്തിൻറെ സ്കെയിൽ l ആണെന്ന് അനുമാനിക്കാം അതിന്റെ അർത്ഥം ഞാൻ മുൻ പ്രഭാഷണത്തിൽ കണ്ട കപ്പാസിറ്ററിൻറെ പ്രശ്നം നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ വലുപ്പമുള്ളതായിരിക്കാം അത് നിങ്ങൾക്ക് 10 സെന്റീമീറ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി എടുക്കാം ഞാൻ കുറച്ച് മീറ്റർ അകലെയുള്ള ഫീൽഡുകൾ നിരീക്ഷിക്കാം അതിനാൽ നീളത്തിൻറെ സ്കെയിൽ ഏതാനും മീറ്ററാകും 2 ടൈം സ്കെയിൽ ക്രമത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇവിടെ എന്താണ് അർഥമാക്കുന്നത് എന്നാൽ ഞാൻ സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രയോഗിക്കുന്നുവെന്ന് കരുതുക അതിൻറെ സമയ കാലയളവ് ഒമേഗയാണ് അപ്പോൾ ആ സിഗ്നലിനായി ഞാൻ ഈ E എന്നാൽ E 0 സൈൻ ഒമേഗ t ആയി എഴുതുന്നു അപ്പോൾ ടൈം സ്കെയിൽ τ എന്നത് 2 പൈ ഓവർ ഒമേഗ ആയിരിക്കും അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്കെയിൽ മൂന്നാമത്തെ അനുബന്ധ അളവ് എന്താണെന്നാൽ സിസ്റ്റം ഒരു വേഗതയിൽ നീങ്ങുന്നുണ്ടാകാം ആ വേഗത ഒരു l ഓവർ τ വിന്റെ ക്രമത്തിലാണ് അതിനാൽ ഈ മൂന്ന് കാര്യങ്ങളും അവിടെയുണ്ട് ഏത് സാഹചര്യത്തിലാണ് l τ എന്നിവയും ബാക്കിയുള്ളവയും എല്ലാം ബന്ധപ്പെട്ടിരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതുവഴി നമുക്ക് ഈ ക്വാസിസ്റ്റാറ്റിക് അപ്പ്രൊക്സിമേഷൻ പ്രയോഗിക്കാൻ കഴിയും ഞാൻ ഈ സമവാക്യങ്ങൾ വീണ്ടും എഴുതാം കേൾ B എന്നത് mu 0 എപ്സിലോൺ 0 d E by d t അത് 1 ഓവർ C സ്ക്വയർ d E d t ആയിരിക്കും കൂടാതെ എനിക്ക് കേൾ E എന്നാൽ മൈനസ് d B d t ക്ക് തുല്യമാണ് അതിനാൽ സമയ ദൈർഘ്യ സ്കെയിൽ l ടൈം സ്കെയിൽ τ വേഗത v എന്നിവ ഉപയോഗിച്ച് എനിക്ക് ഈ സമവാക്യം ഏകദേശം എഴുതാം കേൾ B യുടെ മാഗ്നിറ്റ്യൂഡ് എന്നാൽ മാഗ്നിറ്റ്യൂഡ് B ഹരിക്കണം l ആണ് ഇത് ഏകദേശം 1 ഓവർ C സ്ക്വയർ d E d t ക്ക് തുല്യമാണ് അതിനാൽ ഇത് τ കൊണ്ട് ഹരിച്ച E യുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും B00E∂t1c2E∂tE B∂t |B|l1c2|E||E|l|B| അതുപോലെ മറ്റൊരു സമവാക്യത്തിൽ എനിക്ക് മാഗ്നിറ്റ്യൂഡ് E by l എന്നത് മാഗ്നിറ്റ്യൂഡ് B by τ യുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ് നോക്കാം അതിനായി ഒരു സോളിനോയിഡിന്റെ ഉദാഹരണം നമുക്ക് എടുക്കാം സോളിനോയിഡിൽ ടൈം സ്കെയിൽ τ ക്കൊപ്പം കറന്റ് I t മാറുന്നു കാന്തികക്ഷേത്രത്തിലെ ഈ മാറ്റം വൈദ്യുത മണ്ഡലത്തിന് കാരണമാകുന്നു അതിനാൽ നമ്മൾ ഈ സമവാക്യം ഉപയോഗിക്കുന്നു ഞാൻ ഇത് കുറച്ച് അകലെ l എന്ന ദൂരത്തുനിന്നാണ് നിരീക്ഷിക്കുന്നത് അതിനാൽ കാന്തികക്ഷേത്രം എന്തുതന്നെയായാലും E എന്നാൽ l ഓവർ τ തവണ B എന്ന ക്രമത്തിൽ ആയിരിക്കും ഇത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അതിനാൽ ഞാൻ ഇത് ഇൻഡ്യൂസ്ഡ് ആയി എഴുതട്ടെ |E|ഇൻഡ്യൂസ്ഡ്l|B| ഈ പ്രേരിത വൈദ്യുത മണ്ഡലവും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ഈ പുതിയ കാന്തിക മണ്ഡലത്തിന് കാരണമാകുന്നു അതിനാൽ ഇലക്ട്രിക് ഫീൽഡിലെ ഈ മാറ്റം കാരണം കൂടുതൽ ഇൻഡ്യൂസ്ഡ് ആയതിനാൽ നമുക്കതിനെ B ഇൻഡ്യൂസ്ഡ് എന്ന് എഴുതാം B ഇൻഡ്യൂസ്ഡ്നെ l കൊണ്ട് ഹരിച്ചാൽ 1 by C സ്ക്വയർ E ഇൻഡ്യൂസ്ഡ് ഓവർ τ നു തുല്യമായ ക്രമത്തിൽ ആയിരിക്കും Bഇൻഡ്യൂസ്ഡ് l1c2Eഇൻഡ്യൂസ്ഡ് അതിനാൽ B ഇൻഡ്യൂസ്ഡ് എന്നാൽ l ഓവർ τ C സ്ക്വയർ E ഇൻഡ്യൂസ്ഡ് എന്ന ക്രമത്തിൽ ആണ് ഇതൊരു പുതിയ സ്ലൈഡ് ആയതിനാൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഒരു സോളിനോയിഡ് എടുത്ത് അതിൽ നിന്ന് l എന്ന ദൂരത്തേക്ക് ഉള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അനന്തരഫലമായി ഉണ്ടാകുന്ന കാന്തികമണ്ഡലം B ഇതിനുള്ളിൽ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ E ഇൻഡ്യൂസ്ഡ് എന്നത് l ഓവർ τ B t എന്ന ക്രമത്തിലാണെന്ന് നമ്മൾ ഇതിനകം കണ്ടെത്തിയിരുന്നു ഇവിടെ B t ആണ് സോളിനോയിഡിൽ യഥാർത്ഥത്തിൽ മാറുന്നത് അതിനാൽ B ഇൻഡ്യൂസ്ഡ് എന്നത് 1 ഓവർ τ C സ്ക്വയർ തവണ l ഓവർ τ തവണ B t എന്ന ക്രമത്തിലായിരിക്കും ഇത് l ഓവർ τ C സ്ക്വയർ B t ആയിരിക്കും അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒരു യഥാർത്ഥ B t ഉണ്ട് അതിനെ ഞാൻ B 0 t എന്ന് വിളിക്കും ഇത് E 1 t എന്ന ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡിന് കാരണമാകുന്നു അത് ഒരു ഫീൽഡ് B 1 t ക്ക് കാരണമാകുന്നു പിന്നീട് ഇതുപോലെ തുടരുന്നു ഇത് l ഓവർ τ B ആയി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് യഥാർത്ഥ B യുമായി l ഓവർ τ C സ്ക്വയർ B ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ B 1 t എന്നത് l ഓവർ τ C സ്ക്വയർ B 0 t എന്ന ക്രമത്തിലാണ് L ഓവർ τ C ഒന്നിനേക്കാൾ വളരെ വളരെ കുറവാണെങ്കിൽ B 1 t അവഗണിക്കാവുന്നതാണ് കാരണം നമ്മൾ കണക്കിലെടുക്കുന്ന ദൂരങ്ങൾ τ C യെക്കാൾ വളരെ ചെറുതാണ് C വളരെ വലുതാണ് C എന്നത് സെക്കൻഡിൽ 10 റെയ്സ്സ് ടു 8 മീറ്റർ വരെയാണ് ഇത് യഥാർത്ഥത്തിൽ 3 തവണ സെക്കൻഡിൽ 10 റെയ്സ്സ് ടു 8 മീറ്റർ വരെ ഉയർത്തുന്നു അതിനാൽ നിങ്ങൾ ശരിക്കും വലിയ ദൂരങ്ങളോ വളരെ ചുരുങ്ങിയ സമയമോ എടുക്കുന്നില്ലെങ്കിൽ C τ വളരെ ചെറുതാണെങ്കിൽ B 1 എന്നത് നിസ്സാരമായിരിക്കും മറ്റൊരു വിധത്തിൽ എനിക്ക് ഇവിടെ സമാനമായ ഒരു വാദം പ്രയോഗിക്കാൻ കഴിയും മറ്റൊരു വഴി ആയി നമ്മൾ ഈ കപ്പാസിറ്റർ എടുത്തു അതിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം I t ഉണ്ടായിരുന്നു കൂടാതെ ഈ കാന്തികക്ഷേത്രം ഉത്പാദിപ്പിക്കപ്പെട്ടു അതിനാൽ ആദ്യം എനിക്ക് E t ഉണ്ടായിരുന്നു നമുക്ക് ഇതിനെ E 0 t എന്ന് വിളിക്കാം ഇത് B 1 t ക്ക് കാരണമാകുന്നു അത് വീണ്ടും മറ്റൊരു E 1 t ക്ക് കാരണമാകും വീണ്ടും എനിക്ക് ഡെൽ ക്രോസ് B എന്നാൽ mu 0 എപ്സിലോൺ 0 d E 0 d t ആയിരിക്കുമെന്ന് എന്ന് പറയാം ഇതിൽ നിന്ന് B 1 t ഓവർ l എന്നാൽ 1 ഓവർ C സ്ക്വയർ τ E 0 t ആകുമെന്നും അതിൽ നിന്ന് B 1 t എന്നാൽ l ഓവർ C സ്ക്വയർ τ E 0 t ആയിരിക്കുമെന്നും എനിക്ക് വാദിക്കാനാകും വീണ്ടും കേൾ E എന്നാൽ മൈനസ് d B by d t ക്ക് തുല്യമാണ് തുടർന്ന് എനിക്ക് E 1 എന്നാൽ l ഓവർ τ C സ്ക്വയർ E 0 t എന്ന് ലഭിക്കുന്നു അതിനാൽ l എന്നത് τ C യേക്കാൾ വളരെ വളരെ ചെറുതാണെങ്കിൽ എനിക്ക് ഈ ഓർഡറിൽ നിർത്തി അതിന്റെ ഫലം എന്താണെന്ന് കാണാൻ കഴിയുന്നതാണ് അവസാനമായി L ഓവർ C τ വളരെ ചെറുതാണെങ്കിൽ ഇപ്പോൾ ഞാനതിനെ ഒരു വേഗത by C എന്നതിന് സമാനമായി എഴുതുകയാണെങ്കിൽ അപ്പോഴും ഇത്തരത്തിൽ എനിക്ക് ഇത്തരത്തിൽ ഏകദേശ കണക്കായി ചെയ്യാം ഉദാഹരണത്തിന് ഒരു ചാർജ് കണിക v വേഗതയിൽ നീങ്ങുന്നു ആ സാഹചര്യത്തിൽ ഈ വേഗതയ്ക്ക് തുല്യമായ τ ഉപയോഗിച്ച് ഞാൻ l മാറ്റിസ്ഥാപിക്കും ഇപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ് കറൻറ്ൻറെ മറ്റൊരു പ്രകടനമാണ് ഈ ഉദാഹരണം വേഗത v യിൽ നീങ്ങുന്ന ഒരു ചാർജ്ജ് കണിക ഉണ്ടെങ്കിൽ എനിക്ക് കേൾ B എന്നാൽ mu 0 J ക്ക് തുല്യമാകുന്ന ഈ സമവാക്യത്തിൽ ഇവിടെ J എന്നാൽ ഫ്രീ കറന്റ് മാത്രമാണ് ചാർജ് കണിക കടന്നുപോയ ഒരു പ്രദേശത്തിന് ചുറ്റും എനിക്ക് സ്റ്റോക്സിന്റെ സിദ്ധാന്തം എടുക്കണമെങ്കിൽ ചാർജ്ജ് കണങ്ങൾ മുകളിലായി ഇവിടെയാണ് സ്റ്റോക്സിന്റെ സിദ്ധാന്തമനുസരിച്ച് B ഡോട്ട് d l എന്നാൽ mu 0 I ക്ക് തുല്യമാണ് പക്ഷേ ഈ മേഖലയിലൂടെ I 0 ആണ് കാരണം ചാർജ് കണിക അവിടെ ഇല്ലാതെ അത് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു അതിനാൽ ഈ കേൾ എടുത്താൽ B 0 ആണെന്ന് ഇത് സൂചിപ്പിക്കും അതേസമയം ഡിസ്പ്ലേസ്മെൻറ് കറൻറ് കാരണം വാസ്തവത്തിൽ അത് ഉണ്ടാകുന്നില്ല ഈ ചാർജ് കാരണം ഈ വൈദ്യുത മണ്ഡലം ഉണ്ട് ചാർജ് ചലിക്കുന്നതിനാൽ വൈദ്യുത മണ്ഡലവും സമയത്തിനനുസരിച്ച് മാറുന്നു അത് ആ കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്നു ഒരു അസൈൻമെന്റ് പ്രശ്നമായി ഞാൻ അത് തരാം